അതിനാൽ ഈ പ്രത്യേക പ്രഭാഷണത്തിൽ ഞങ്ങൾ IIoT യ്ക്കായുള്ള ക്ലൌഡ് കമ്പ്യൂട്ടിംഗിനെക്കുറിച്ച് കഴിഞ്ഞ ഭാഗത്ത് ചർച്ച ചെയ്തതിൽ നിന്ന് തുടരാൻ പോകുന്നു അതിനാൽ മുൻ പ്രഭാഷണത്തിൽ ഞങ്ങൾ IIoT സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിന് ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമുകളുടെ വ്യത്യസ്ത ഉദാഹരണങ്ങളെക്കുറിച്ചും ക്ലൌഡിന്റെ ഉപയോഗത്തിന്റെ പ്രയോജനത്തെക്കുറിച്ചും സംസാരിച്ചത് ഓർക്കുന്നുവെങ്കിൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് എന്താണെന്നും വ്യാവസായിക ഓട്ടോമേഷൻ IIoT തുടങ്ങിയവയുടെ പശ്ചാത്തലത്തിൽ അതിന്റെ പ്രയോജനം എന്താണെന്നും മറ്റും അതിനാൽ ഈ പ്രത്യേക പ്രഭാഷണത്തിൽ ഞങ്ങൾ കൂടുതൽ തുടരാൻ പോവുകയാണ് കൂടാതെ IIoT നായി ക്ലൌഡ് ക്ലൌഡ് അധിഷ്ഠിത വിശകലനങ്ങളുടെ മറ്റ് ചില ഉദാഹരണങ്ങൾ ഞങ്ങൾ നോക്കാൻ പോകുന്നു അതിനാൽ മുൻ പ്രഭാഷണത്തിൽ ഞങ്ങൾ ജനറൽ ഇലക്ട്രിക് സീമെൻസ് ഹണിവെൽ തുടങ്ങിയ കമ്പനികളെക്കുറിച്ച് സംസാരിച്ചു ഇവയാണ് വ്യത്യസ്ത വ്യാവസായിക സേവന ദാതാക്കളും അവരുടെ പ്രെഡിക്സ് തുടങ്ങിയ വ്യത്യസ്ത പരിഹാരങ്ങളും കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്തതും അങ്ങനെ മറ്റ് നിരവധി കമ്പനി കമ്പനികളും വ്യാവസായിക ഐഒടി പരിഹാരങ്ങൾക്കായി ക്ലൌഡ് അധിഷ്ഠിത പ്ലാറ്റ്ഫോമുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ അവിടെ മറ്റ് ഐഒടി സൊല്യൂഷനുകളും പ്രത്യേകിച്ച് ക്ലൌഡ് അധിഷ്ഠിത ഐഒടി സൊല്യൂഷനുകളും അനലിറ്റിക്സുമായി അവയുടെ സംയോജനവും കൊണ്ടുവന്ന വ്യത്യസ്ത സോഫ്റ്റ്വെയർ ഡെവലപ്പ്മെന്റ് സ്ഥാപനങ്ങളാണ് അതിനാൽ C3 IoT Uptake Meshify എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ് അതിനാൽ IoT യ്ക്കായി ക്ലൌഡ് അധിഷ്ഠിത വിശകലനങ്ങളുടെ മറ്റ് ഉദാഹരണങ്ങളിൽ ചിലത് മാത്രമാണ് ഇവ സ്വതന്ത്ര സോഫ്റ്റ്വെയർ വികസന സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുത്തത് അതിനാൽ ഞങ്ങൾ ഇവ ഓരോന്നും ഏറ്റെടുക്കും അവയുടെ ചില ഹൈലൈറ്റുകൾ അല്ലെങ്കിൽ അവയിലുള്ള സവിശേഷതകളിലൂടെ ഞങ്ങൾ വേഗത്തിൽ നോക്കും അതിനാൽ C3 IoT അടിസ്ഥാനപരമായി വ്യത്യസ്ത വിശകലനങ്ങളിലും പ്രവചനങ്ങളിലും സഹായിക്കാൻ കഴിയുന്ന ഒരുതരം പ്ലാറ്റ്ഫോം വാഗ്ദാനം ചെയ്യുന്നു ഇത് ക്ലൌഡ് അധിഷ്ഠിതമാണ് അതിനാൽ ഇത് ക്ലൌഡ് അധിഷ്ഠിത സേവനങ്ങളും അനലിറ്റിക്സ് പ്രവചനവും മറ്റും ഉൾപ്പെടെ ഈ പ്രത്യേക പ്ലാറ്റ്ഫോം സുരക്ഷിതമാക്കിയിട്ടുണ്ട് കൂടാതെ ഉചിതമായ പ്രാമാണീകരണ സംവിധാനങ്ങൾ അംഗീകാര സംവിധാനങ്ങൾ മുതലായവ നടപ്പാക്കിയിട്ടുണ്ട് സി 3 ൽ ഞാൻ പറഞ്ഞ ഈ വിശകലനങ്ങൾ അടിസ്ഥാനപരമായി AI അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗ് അധിഷ്ഠിത അനലിറ്റിക്സ് വ്യാവസായിക ക്രമീകരണത്തിലെ വ്യത്യസ്ത ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി വ്യത്യസ്ത ഉപകരണങ്ങൾ നൽകിയിട്ടുണ്ട് വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഡാറ്റ C3 ഡാറ്റ തടാകം എന്ന് വിളിക്കപ്പെടുന്നവയിൽ സൂക്ഷിക്കുന്നു ഇത് അടിസ്ഥാനപരമായി ഈ തരത്തിലുള്ള ഘടനയില്ലാത്ത എല്ലാ ഡാറ്റയും ഏതെങ്കിലും തരത്തിലുള്ള ഉപയോഗത്തിൽ സംഭരിക്കുന്നു RESTful ആർക്കിടെക്ചർ ഫോർമാറ്റ് എന്നറിയപ്പെടുന്ന ഒരു ഫോർമാറ്റിന്റെ അതിനാൽ ഈ ഡാറ്റയെല്ലാം ഇങ്ങനെയാണ് സംഭരിക്കുന്നത് അതിനാൽ ഡാറ്റാ തടാകത്തിൽ സംഭരിച്ചിരിക്കുന്ന ഡാറ്റ ഇവയെല്ലാം ഘടനാപരമായ ഡാറ്റയാണ് ഇവ ഡാറ്റാ തടാകത്തിൽ സംഭരിച്ചിരിക്കുന്നു കൂടാതെ വ്യത്യസ്തമായ ശക്തമായ AI അടിസ്ഥാനമാക്കിയുള്ള അനലിറ്റിക്സ് പ്രവചനവും അങ്ങനെ എല്ലാം ഒരുമിച്ച് സുരക്ഷിതമായ പ്ലാറ്റ്ഫോം കൂടാതെ ഉചിതമായ തലത്തിലുള്ള പ്രാമാണീകരണ അംഗീകാരത്തിന്റെ രൂപത്തിലും മറ്റും സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു അതിനാൽ C3 IoT പ്ലാറ്റ്ഫോം ടൂളുകൾക്ക് ഡാറ്റ ഇന്റഗ്രേറ്റർ IDE ഡാറ്റ എക്സ്പ്ലോറർ എന്നിങ്ങനെ വ്യത്യസ്ത ഘടകങ്ങളുണ്ട് ഈ ഉപകരണങ്ങളിൽ ഓരോന്നും അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ ഞാൻ ഇവയ്ക്ക് പേരിടുകയാണ് ഈ ഓരോ ഉപകരണങ്ങളും എന്താണ് ചെയ്യുന്നതെന്നും അവയുടെ വ്യത്യസ്ത ഘടകം എന്താണെന്നും ഒരു മൊത്തത്തിലുള്ള ധാരണ ലഭിക്കാൻ ഇത് പര്യാപ്തമാണെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ഈ വെണ്ടർ നിർദ്ദിഷ്ട ഉപകരണങ്ങളുടെ ഓരോ ഘടകങ്ങളുടെയും വിശദാംശങ്ങൾ ഞാൻ ഉൾക്കൊള്ളാത്തത് അതുകൊണ്ടാണ് അതിനാൽ IIoT യ്ക്കായുള്ള SaaS ടൂളുകൾ പോലുള്ള പ്രത്യേക ഉപകരണങ്ങളായ പ്രവചന പരിപാലനം ഇൻവെന്ററി ഒപ്റ്റിമൈസേഷൻ മുതലായവയാണ് മറ്റ് കാര്യങ്ങൾ അതിനാൽ C3 ൽ നൽകിയിട്ടുള്ള രണ്ട് തരം ഉപകരണങ്ങളാണ് ഇവ എന്റർപ്രൈസ് ആവശ്യകതകൾ നിറവേറ്റുന്നതിനും വിശകലനം ചെയ്യുന്നതിനുമുള്ള ഒരു വിശകലന പരിഹാരമാണ് അപ്ടേക്ക് വ്യാപാര ചർച്ചകളിലൂടെ ബിസിനസ്സ് ഇതാണ് ഏറ്റെടുക്കൽ ചെയ്യുന്നത് അതിനാൽ മൊത്തത്തിലുള്ള വർദ്ധനവ് വിപുലമായ അനലിറ്റിക്സ് വാഗ്ദാനം ചെയ്യുന്നതിനെക്കുറിച്ചും ബിസിനസ്സിന്റെയോ എന്റർപ്രൈസസിന്റെയോ ആവശ്യകതകൾ നിറവേറ്റുന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നതായി നമുക്ക് കാണാനാകുന്നതുപോലെ അത് ക്ലൌഡ് അധിഷ്ഠിതവും നിർദ്ദിഷ്ട വ്യവസായ അധിഷ്ഠിത ആവശ്യകതകൾ ലക്ഷ്യമിടുന്നതുമാണ് അതിനാൽ ഇതാണ് അപ്ടേക്കിന്റെ മൊത്തത്തിലുള്ള വാസ്തുവിദ്യാ കാഴ്ച അതിനാൽ ഒരു പാളി അടിസ്ഥാനപരമായി ഉപഭോക്തൃ സംതൃപ്തിയെക്കുറിച്ച് സംസാരിക്കുന്നു താഴത്തെ പാളി അടിസ്ഥാനപരമായി ഉപഭോക്തൃ സംതൃപ്തിയെക്കുറിച്ച് സംസാരിക്കുന്നു അത് സേവനങ്ങൾ സുരക്ഷിതമാക്കുന്നതിനുള്ള ആവശ്യകതകൾ നിറവേറ്റുന്നു മികച്ച സംഭരണം വാഗ്ദാനം ചെയ്യുന്നു നിയമപരമായ പ്രശ്നങ്ങൾ നിയന്ത്രണങ്ങൾ തുടങ്ങിയവ പാലിക്കുന്നു സബ്സ്ക്രൈബുചെയ്ത ഉപയോക്തൃ സേവനങ്ങൾ ഓട്ടോമേഷൻ സാങ്കേതിക പുരോഗതി വാങ്ങുന്നതിലും വിൽക്കുന്നതിലും എളുപ്പമുള്ള വരുമാനത്തിന്റെ ഒഴുക്ക് എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്ന സാങ്കേതിക പിന്തുണ രണ്ടാം നിര വാഗ്ദാനം ചെയ്യുന്നു മൂന്നാമത്തെ ശ്രേണി അടിസ്ഥാനപരമായി മെച്ചപ്പെട്ട വിഭവ വിനിയോഗം തനിപ്പകർപ്പുകൾ ഒഴിവാക്കൽ ഉൽപാദനത്തിലെ വളർച്ച ഫലപ്രദമായ ചെലവ് കണക്കുകൂട്ടൽ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു ഇത് ഈ പ്രത്യേക പാളിയുടെ വ്യത്യസ്ത ഗുണങ്ങളാണ് അതിനാൽ അത് അപ്ടേക്ക് ആയിരുന്നു മൂന്നാമത്തേത് മെഷിഫി ആണ് മെഷീഫി ഒരു IIoT പ്ലാറ്റ്ഫോമാണ് ഇത് പ്രക്രിയകളുടെ വേഗത്തിലുള്ള വിന്യാസത്തിന് സഹായിക്കുന്നു എല്ലാത്തരം യന്ത്രങ്ങൾ പ്രക്രിയകൾ വ്യത്യസ്ത ഉപകരണങ്ങൾ മുതലായവ തത്സമയം നിരീക്ഷിക്കാൻ സഹായിക്കുന്നു മെഷിഫിയുടെ ഒരു ഘടകം ഇതാണ് ഇപ്പോൾ രണ്ടാമത്തെ ഘടകം ട്രാക്കറും മൂന്നാമത്തേത് എന്റർപ്രൈസുമാണ് അതിനാൽ ഈ ഓരോ ഘടകങ്ങളും എന്താണ് ചെയ്യുന്നതെന്നും അവ പരസ്പരം ബഹുമാനത്തോടെ എങ്ങനെ നിലകൊള്ളുന്നുവെന്നും നമുക്ക് വളരെ ഉയർന്ന തലത്തിൽ നോക്കാം അതിനാൽ ഇത് ഞങ്ങളുടെ മെഷിഫി ആണെന്ന് നമുക്ക് അനുമാനിക്കാം ഈ മെഷിഫിക്ക് ഇപ്പോൾ ഈ വ്യത്യസ്ത ഘടകങ്ങളുണ്ട് ഇപ്പോൾ 1 ആണ് അസറ്റ് ട്രാക്കിംഗ് തത്സമയം അസറ്റ് ട്രാക്കിംഗ് പോലുള്ള പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുന്നു കാരണം തത്സമയം IIoT അസറ്റ് ട്രാക്കിംഗിന് അതാണ് പ്രധാനം അപ്പോൾ ഈ എന്റർപ്രൈസ് മുഴുവൻ സ്റ്റാക്ക് IoT പരിഹാരങ്ങൾ പരിഹരിക്കാവുന്ന കോൺഫിഗറേഷൻ പിന്തുണ കസ്റ്റം അറിയിപ്പ് സൌകര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഇത്യാദി മൂന്നാമത്തേത് വേഗത്തിലുള്ള വിന്യാസം തത്സമയ നിരീക്ഷണം ദൃശ്യവൽക്കരണം എന്നിവ ശ്രദ്ധിക്കുന്ന ഈ ട്രാക്കറാണ് ഉയർന്ന IIoT ആവശ്യകതകൾക്കായി വികസിപ്പിച്ച മെഷിഫി എന്ന ഈ പ്ലാറ്റ്ഫോമിന്റെ മൂന്ന് പ്രധാന ഘടകങ്ങളാണ് ഇവ ഇപ്പോൾ ഈ പ്രത്യേക പ്രഭാഷണത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായ ഈ ക്ലൌഡ്ലേക്ക് നമുക്ക് വരാം ക്ലൌഡ് വളരെ പ്രധാനമാണ് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ ക്ലൌഡ് സഹായിക്കുന്നു അതിനാൽ ക്ലൌഡ് അടിസ്ഥാനപരമായി ഒന്നാം നമ്പർ ചെയ്യാൻ സഹായിക്കും ഉപകരണ മാനേജ്മെന്റ് ഇപ്പോൾ എന്താണ് ഈ ഉപകരണ മാനേജ്മെന്റ് ഡിവൈസ് മാനേജ്മെന്റ് അടിസ്ഥാനപരമായി ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു അതിനാൽ ഈ ഉപകരണ മാനേജ്മെന്റ് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് നമുക്ക് ഇപ്പോൾ നോക്കാം അതിനാൽ ഞങ്ങൾക്ക് ഈ ഉപകരണ മാനേജുമെന്റ് ഉണ്ട് എന്തുകൊണ്ട് ഈ ഉപകരണ മാനേജ്മെന്റ് ആവശ്യമാണ് ഇത് ആവശ്യമായി വരുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് തെറ്റായ ഉപകരണങ്ങൾ ഉണ്ടായിരിക്കാം കാലാകാലങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന മാനദണ്ഡങ്ങളിൽ മാറ്റം വന്നേക്കാം സമയബന്ധിതമായി ചില ആവശ്യകതകൾ നിറവേറ്റേണ്ട ആവശ്യമുണ്ടാകാം ഡിവൈസ് മാനേജ്മെന്റ് മറ്റ് പല കാരണങ്ങളാലും ആവശ്യമാണ് ഉദാഹരണത്തിന് ഇൻഡസ്ട്രിയൽ ഐഒടി സൊല്യൂഷനുകളുടെ സാധാരണവും അവസാനത്തേതും ആയ വലിയതോ മറ്റ് വലിയതോ ആയ ഉപകരണങ്ങൾ ഒരുമിച്ച് പരിപാലിക്കുന്നത് എന്നാൽ ഈ സുരക്ഷയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞത് ഇവിടെയല്ല അതിനാൽ സുരക്ഷാ ഓഫർ അതിനാൽ മൊത്തത്തിലുള്ള ഉപകരണങ്ങളും പ്ലാറ്റ്ഫോമും സുരക്ഷിതമാക്കാൻ ഞങ്ങൾ ചെയ്യുന്ന ഏത് ഉപകരണ മാനേജുമെന്റും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിനാൽ ഇവയെല്ലാം നിറവേറ്റേണ്ടത് ആവശ്യമാണ് അവിടെയാണ് ഉപകരണ മാനേജുമെന്റ് സഹായകരമാകുന്നത് അതിനാൽ ഈ ഉപകരണ മാനേജ്മെന്റിന് ക്ലൌഡ് അധിഷ്ഠിത പരിഹാരങ്ങൾ ഉപയോഗപ്രദമാകും അതിനാൽ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ക്ലൌഡ് അധിഷ്ഠിത പരിഹാരങ്ങൾ വേണ്ടത് വ്യത്യസ്തമായ നിരവധി കാര്യങ്ങൾ ചെയ്യാൻ ക്ലൌഡ് അധിഷ്ഠിത പരിഹാരങ്ങൾ ഞങ്ങളെ സഹായിക്കും പിന്നെ എന്തുകൊണ്ടാണ് ക്ലൌഡ് അധിഷ്ഠിത ഉപകരണ മാനേജ്മെന്റ് ക്ലൌഡ് അധിഷ്ഠിത ഉപകരണ മാനേജ്മെന്റിന് വ്യത്യസ്ത സവിശേഷതകളുണ്ട് നമ്പർ 1 ആണ് ഇത് കാര്യക്ഷമമായ പ്രൊവിഷനിംഗിലും ആധികാരികതയിലും പ്രാമാണീകരണത്തിനുള്ള കാര്യക്ഷമമായ മാർഗത്തിലും സഹായിക്കും ക്ലൌഡ് അധിഷ്ഠിത ഉപകരണ മാനേജ്മെന്റ് കാര്യക്ഷമമായ തെറ്റ് ഡയഗ്നോസ്റ്റിക്സിൽ സഹായിക്കും കാരണം ഇത് ക്ലൌഡ് അധിഷ്ഠിതമാണെങ്കിൽ ഞങ്ങൾ അനലിറ്റിക്സ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ പോകുന്നു ക്ലൌഡിൽ ഇത് ചെയ്യാൻ കഴിയും അതിനാൽ ക്ലൌഡ് ഞങ്ങൾക്ക് ആവശ്യമായ പ്രോസസ്സിംഗ് പവർ പ്ലസ് സ്റ്റോറേജ് തുടങ്ങിയവ നൽകും അതിനാൽ ഈ തത്സമയ വിശകലനങ്ങളും മറ്റും തെറ്റായ രോഗനിർണയത്തിനും മറ്റും പ്രവർത്തിക്കുന്നത് ക്ലൌഡ് അധിഷ്ഠിതമാണെങ്കിൽ കൂടുതൽ ചെയ്യാൻ കഴിയും അതിനാൽ തെറ്റ് ഡയഗ്നോസ്റ്റിക്സിനായി ക്ലൌഡ് അധിഷ്ഠിത ഉപകരണ മാനേജ്മെന്റ് നമ്പർ 3 അപ്ഡേറ്റുകളും അറ്റകുറ്റപ്പണികളും നടത്തുന്നതിനുള്ള ഫലപ്രദമായ മാർഗ്ഗമാണ് നമ്പർ 4 കോൺഫിഗറേഷന്റെയും നിയന്ത്രണത്തിന്റെയും കാര്യക്ഷമമായ പ്രശ്നമാണ് നമ്പർ 5 ചിലപ്പോൾ ഒരു പ്രത്യേക ഉപകരണം നീക്കംചെയ്യാനും ഒരു ഉപകരണം ചേർക്കാനും ഒരു ഉപകരണം മാറ്റാനും ആവശ്യമാണെങ്കിൽ ഒരു ഉപകരണം നീക്കം ചെയ്യാനും മറ്റും അതിനാൽ അതും സുഗമമാക്കും അതിനാൽ ഈ ക്ലൌഡ് അധിഷ്ഠിത ഉപകരണ മാനേജുമെന്റ് IIoT ഉപകരണ മാനേജുമെന്റിന്റെ സഹായത്തോടെ ഒരു ഉപകരണം കൂടുതൽ ഫലപ്രദമായി നീക്കം ചെയ്യുകയോ മാറ്റുകയോ ചെയ്യാം അതിനാൽ റോബർട്ട് ബോഷ് അവരുടെ പരിഹാരങ്ങൾ ആമസോൺ പോലുള്ള കമ്പനികൾ എന്നിവയ്ക്ക് അവരുടെ AWS ഉണ്ട് കൂടാതെ IIoT ആവശ്യകതകൾ സൃഷ്ടിക്കുന്ന നിർദ്ദിഷ്ട പരിഹാരങ്ങൾ പോലുള്ള വിവിധ കമ്പനികൾ ഉണ്ട് ഉടൻ അതിനാൽ ഇതാണ് കമ്പനി ഇത് ഇതുപോലുള്ള ചില കമ്പനികളാണ് ഉപകരണ മാനേജുമെന്റിനായി ക്ലൌഡ് അധിഷ്ഠിത പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ക്ലൌഡ് അധിഷ്ഠിത മറ്റ് നിരവധി കമ്പനികളുണ്ട് ഇനി നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതിലേക്ക് മടങ്ങാം അതിനാൽ ഉപകരണ മാനേജുമെന്റ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ഞങ്ങൾ ഒരു സാധാരണ IIoT വിന്യാസ സാഹചര്യത്തിൽ ധാരാളം ഉപകരണങ്ങളെ പരിപാലിക്കുന്ന ധാരാളം ഉപകരണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു കൂടാതെ അവയുടെ കോൺഫിഗറേഷൻ പ്രൊവിഷനിൽ നിന്ന് ആരംഭിക്കുന്ന വ്യത്യസ്ത ആവശ്യകതകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തെറ്റും സുരക്ഷയും അങ്ങനെ പലതും അതിനാൽ ആവാസവ്യവസ്ഥ മൊത്തത്തിൽ വളരെ സങ്കീർണമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം ആവശ്യമാണ് അത് ക്ലൌഡ് അധിഷ്ഠിതമാണെങ്കിൽ പരിഹാരം അത് ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ എന്താണെന്നും മൊത്തത്തിലുള്ള ക്ലൌഡ് അധിഷ്ഠിത ഉപകരണ മാനേജുമെന്റ് പരിഹാരങ്ങൾ സഹായകരമാകുമെന്നും ഞങ്ങൾ കണ്ടു ഉപഭോക്താക്കൾക്ക് വ്യത്യസ്തമായ ആകർഷകമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു അതിനാൽ ഞങ്ങൾ ഇതിനകം കണ്ട ഉപകരണ മാനേജുമെന്റിന്റെ ആവശ്യകതകളും അവയുടെ വ്യത്യസ്ത പ്രവർത്തനങ്ങളും ഇവ എന്തുകൊണ്ടാണ് ഈ ക്ലൌഡ് അധിഷ്ഠിത ഉപകരണ മാനേജുമെന്റ് പരിഹാരം ആവശ്യമായി വരുന്നത് അതിനാൽ ഉപകരണ മാനേജുമെന്റിനായി ക്ലൌഡ് പ്ലാറ്റ്ഫോം സേവന ദാതാക്കൾ വാഗ്ദാനം ചെയ്യേണ്ട ചില സവിശേഷതകളാണ് ഇവ ഞങ്ങൾ ഇതിനകം കണ്ട പ്രൊവിഷനിംഗും നിയന്ത്രണം ഇവ ക്ലൌഡ് അധിഷ്ഠിത ഉപകരണ മാനേജ്മെന്റ് പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന വ്യത്യസ്ത കാര്യങ്ങളാണ് ബോഷിന്റെ IoT റിമോട്ട് മാനേജർ AWS നായുള്ള ആമസോണിന്റെ IoT ഡിവൈസ് മാനേജ്മെന്റ് വെരിസ്മിക്സ് ക്ലൌഡ് മാനേജ്മെന്റ് സ്യൂട്ട് അങ്ങനെ പല ക്ലൌഡ് അധിഷ്ഠിത ഉപകരണ മാനേജുമെന്റ് പരിഹാരങ്ങളും ഞാൻ പരാമർശിച്ച ചില കമ്പനികൾ ഇവയാണ് അടുത്ത കാര്യം സേവന തലത്തിലുള്ള ഉടമ്പടിയാണ് അതിനാൽ സേവന തലത്തിലുള്ള കരാറുകൾ അല്ലെങ്കിൽ എസ്എൽഎകൾ വളരെ പ്രധാനമാണ് പ്രത്യേകിച്ചും നിങ്ങൾ ക്ലൌഡിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനാൽ എസ്എൽഎ എന്നത് സേവനങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ് അവർക്കിടയിൽ ഏത് സേവനങ്ങളാണ് നൽകാൻ പോകുന്നതെന്നും സേവനത്തിന്റെ ഉപഭോക്താക്കളെക്കുറിച്ചും അതിനാൽ ക്ലൌഡ് സേവന ദാതാവും അടിസ്ഥാനപരമായി ഈ കമ്പനികളായ ക്ലൌഡ് സേവന ഉപഭോക്താവും ഈ വ്യത്യസ്ത സേവനങ്ങൾ ഉപയോഗിക്കുന്ന IIoT പരിഹാരങ്ങൾ ക്ലൌഡ് അധിഷ്ഠിതമാണ് അതിനാൽ സുരക്ഷ വളരെ പ്രാധാന്യമുള്ള നിരവധി IIoT ആപ്ലിക്കേഷനുകൾ തത്സമയം ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് ചില പ്രത്യേക എസ്എൽഎകൾ ഉണ്ടായിരിക്കണം അത് അവിടെയുള്ള നിർദ്ദിഷ്ട ആവശ്യകതകൾ നിറവേറ്റുകയും ക്ലൌഡ് ദാതാവുമായുള്ള കരാർ അനുസരിച്ച് സേവനങ്ങൾ നൽകുകയും വേണം അതിനാൽ ഇത് ഒരുതരം വാഗ്ദാനമാണ് പലപ്പോഴും നിയമപരമായ ചില ഉപചാരിക ഉടമ്പടിയിലൂടെ എന്തെങ്കിലും നൽകാമെന്ന് വാഗ്ദാനം അതിനാൽ ക്ലൌഡ് ദാതാവ് സേവനമായി എന്ത് എങ്ങനെ നൽകുന്നുവെന്ന് പരിശോധിക്കാൻ SLA കൾ അടിസ്ഥാനപരമായി വ്യാവസായിക ക്ലയന്റുകളെ സഹായിക്കുന്നു അതിനാൽ ഈ സേവനങ്ങൾ എത്ര മികച്ചതാണ് ഈ എസ്എൽഎയും ഇവയുടെ അളവെടുപ്പും പ്രധാനമാണ് അതിനാൽ എസ്എൽഎകൾക്ക് വ്യത്യസ്ത സവിശേഷതകളുണ്ട് എസ്എൽഎകൾക്ക് വളരെ ലളിതവും നിഷ്കളങ്കവും ആകാം പക്ഷേ അർത്ഥവത്തായ എസ്എൽഎകൾക്ക് അഭികാമ്യമായ ചില സവിശേഷതകൾ ഉണ്ട് അതിനാൽ നിങ്ങളുടെ മുൻപിൽ കാണുന്ന വ്യത്യസ്ത സ്വഭാവവിശേഷങ്ങളിൽ ചിലത് ഇവയാണ് ഒരു നല്ല എസ്എൽഎ നേടാൻ കഴിയുന്ന എന്തെങ്കിലും നേടാനാകണം അത് ഒരു സ്വപ്നമല്ല ആവശ്യമായ സമയപരിധിക്കുള്ളിൽ ചെയ്യാൻ കഴിയില്ല രണ്ടാമതായി നല്ല എസ്എൽഎകൾ അർത്ഥവത്തായിരിക്കണം അത് അവ്യക്തമായിരിക്കരുത് അത് കൃത്യമായ അർത്ഥവത്തായ അളവുകോലായിരിക്കണം കാരണം ഇത് അളക്കാനായാൽ മാത്രമേ അത് അളക്കാനാകൂ ഈ വ്യത്യസ്ത അളവെടുക്കാവുന്ന അളവുകളെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ചില ആവശ്യകതകളും നിയമങ്ങളും മുതലായവ നടപ്പിലാക്കാൻ കഴിയും നാലാമത്തേത് ഒരു നല്ല എസ്എൽഎ നിയന്ത്രിക്കാവുന്നതായിരിക്കണം അഞ്ചാമത് അത് പരസ്പരം സ്വീകാര്യമായിരിക്കണം അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതും താങ്ങാവുന്നതുമാണ് അതിനാൽ ക്ലൌഡ്ക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു നല്ല എസ്എൽഎയുടെ ആറ് വ്യത്യസ്ത സവിശേഷതകളാണ് ഇവ പ്രത്യേകിച്ച് ഒരു വ്യാവസായിക പശ്ചാത്തലത്തിൽ IIoT അടിസ്ഥാനമാക്കിയുള്ള ക്രമീകരണത്തിൽ അതിനാൽ നമുക്ക് ഇപ്പോൾ വീണ്ടും നോക്കാം നമ്മൾ ചർച്ച ചെയ്തതിന്റെ ഒരു പുനർവിചിന്തനം നടത്താം അതിനാൽ നമുക്ക് ഈ IIoT പരിഹാരം ഉണ്ടെന്ന് പറയാം അതിനാൽ ഞങ്ങൾക്ക് ഈ IIoT ക്ലൌഡ് സേവന ദാതാവ് ഉണ്ട് അതിനാൽ ഈ ക്ലൌഡ് ദാതാവ് വ്യാവസായിക ക്ലയന്റുമായി ഒരു SLA സൈൻ അപ്പ് ചെയ്യാൻ പോകുന്നു അതിനാൽ ഈ എസ്എൽഎ അടിസ്ഥാനപരമായി നമ്മൾ കണ്ടതുപോലെ വ്യത്യസ്ത ലക്ഷ്യങ്ങൾ സമയ പദ്ധതി ഡെലിവറികളുടെ പട്ടിക ബജറ്റിനെക്കുറിച്ചുള്ള പ്രത്യേകത എന്നിവ ഉണ്ടാകും അതിനാൽ വ്യാവസായിക ക്ലയന്റുകൾക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരു ക്ലൌഡ് അധിഷ്ഠിത IIoT പരിഹാരത്തിൽ ഇത് ചെയ്യണം അതിനാൽ ഈ വ്യത്യസ്ത ആവശ്യകതകളും സവിശേഷതകളും നിറവേറ്റുന്നതിനായി SLA ഉണ്ടായിരിക്കണം അതിനാൽ നമുക്ക് മുന്നോട്ട് പോയി കൂടുതൽ നോക്കാം അതിനാൽ IIoT ലെ SLA കളുടെ നിലവിലെ അവസ്ഥയും ഭാവിയും അതിനാൽ IIoT യിലെ SLA കംപ്ലയിഡ് ക്ലൌഡ് സേവനം ഇപ്പോഴും ഒരു ശിശു ഘട്ടത്തിലാണ് മിക്ക കേസുകളിലും ഇത് കൂടുതൽ പക്വതയില്ലെന്ന് നിങ്ങൾ കണ്ടെത്തും അതിനാൽ ഈ സമയത്ത് വാഗ്ദാനം ചെയ്യുന്ന സേവനങ്ങളുടെ ഗുണനിലവാരത്തിന് ധാരാളം പരസ്പരാശ്രിതത്വങ്ങളുണ്ട് അതിനാലാണ് ഇത് ഇപ്പോഴും അതിന്റെ ശിശു ഘട്ടങ്ങളിൽ തുടരുന്നത് ഐഐഒടിയുടെ രീതികളും ചട്ടക്കൂടുകളും നന്നായി വികസിപ്പിച്ചിട്ടില്ല വ്യാവസായിക പശ്ചാത്തലത്തിൽ ഒരു എസ്എൽഎയുടെ ജീവിതചക്രം മാനേജുമെന്റ് വ്യക്തമല്ല കൂടാതെ ഉപഭോക്താക്കൾക്കും ദാതാക്കൾക്കും എസ്എൽഎ നടപ്പാക്കൽ നയങ്ങളുടെ അഭാവവും ഇപ്പോൾ വ്യക്തമാണ് അതിനാൽ SLA നടപ്പാക്കൽ നയങ്ങളുടെ അഭാവം ഉണ്ട് അതിനാൽ IIoT യ്ക്കുള്ള SLA പിന്തുണ പ്രത്യേകിച്ചും ഒരു ബിസിനസ് മോഡൽ കാഴ്ചപ്പാടിൽ നിന്ന് നിർണായകമാണ് അതിനാൽ ഒരു എസ്എൽഎയുടെ IIoT സ്റ്റാൻഡേർഡൈസേഷന്റെ ഭാവിയിൽ നമ്മൾ സംസാരിക്കുമ്പോഴെല്ലാം ഈ വ്യത്യസ്ത ലാക്കൂണുകളെല്ലാം കണക്കിലെടുക്കുകയും ഭാവിയിൽ അവ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതിനാൽ ബിസിനസ്സ് ചർച്ചാ പ്രക്രിയയിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ആവശ്യകതയായി മാറുന്നു അതിനാൽ IIoT യ്ക്കായി ശരിയായ ക്ലൌഡ് വെണ്ടർ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ക്ലൌഡ് അധിഷ്ഠിത IIoT ക്ലൌഡ് അധിഷ്ഠിത പരിഹാര ദാതാക്കൾ ഇതിനകം അവിടെയുണ്ട് അതിനാൽ ഒരു പ്രത്യേക വ്യവസായത്തിന്റെ നിർദ്ദിഷ്ട ആവശ്യകതകൾ നിറവേറ്റുന്ന ശരിയായ വെണ്ടർക്കായി തിരയേണ്ടത് വളരെ പ്രധാനമാണ് അതിനാൽ IIoT യ്ക്കുള്ള ശരിയായ ക്ലൌഡ് വെണ്ടർ തിരിച്ചറിയാൻ ശ്രമിക്കുന്നതിൽ ഒരു ചെക്ക്ലിസ്റ്റ് സഹായിക്കും അതിനാൽ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന പ്രത്യേക ക്ലൌഡ് വെണ്ടറിന് സ്കേലബിലിറ്റിക്ക് പിന്തുണയുണ്ടോ എന്ന് സ്കേലബിളിറ്റി സപ്പോർട്ട് പോലുള്ള പരിഗണന പോയിന്റുകൾ കണക്കിലെടുത്ത് ഈ ചെക്ക്ലിസ്റ്റ് ഇവിടെ നൽകിയിരിക്കുന്നു ഇതിനർത്ഥം നിങ്ങളുടെ ആവശ്യകതകൾ വർദ്ധിക്കുകയാണെങ്കിൽ ഈ വ്യത്യസ്തമായ കണക്കുകൂട്ടൽ വിഭവങ്ങൾ മുതലായവയിൽ ക്ലൌഡ് വെണ്ടറിന് ആ നമ്പർ വൺ പിന്തുണയ്ക്കാൻ കഴിയുമോ എന്നാണ് നമ്പർ രണ്ട് എന്നത് ബാൻഡ്വിഡ്ത്ത് ആവശ്യകതയാണ് അത് MQTT AMQP HTPP അല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് പ്രോട്ടോക്കോളുകൾ എന്നിവയെ പിന്തുണയ്ക്കുന്ന ആശയവിനിമയ പ്രോട്ടോക്കോളുകൾ നന്നായി മനസ്സിലാക്കുന്നു അതിനാൽ ഏതാണ് പിന്തുണയ്ക്കുന്നത് MQTT കൂടുതൽ സാധാരണമാണ് പക്ഷേ AMQP കൂടി വരുന്നു അതിനാൽ ക്ലൌഡ് വെണ്ടർ പിന്തുണയ്ക്കുന്നവ ഏതാണ് ഈ പ്രോട്ടോക്കോളുകൾ ഏതാണ് നിങ്ങളെ വിന്യസിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇതിനകം വിന്യസിച്ചിരിക്കുന്ന IIoT പരിഹാരത്തിനായി നിങ്ങളുടെ നിർദ്ദിഷ്ട ആവശ്യകതകൾ നിറവേറ്റാൻ സഹായിക്കുന്നത് സുരക്ഷ ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല പരസ്പര പ്രവർത്തനവും സമാനമാണ് എഡ്ജ് ഇന്റലിജൻസ് സവിശേഷത വളരെ പ്രധാനമാണ് അതിനാൽ എഡ്ജ് ഇന്റലിജൻസ് അതിനാൽ ഈ പ്രത്യേക ക്ലൌഡ് അധിഷ്ഠിത പരിഹാരത്തിന് ചില എഡ്ജ് ഇന്റലിജൻസ് വാഗ്ദാനം ചെയ്യുന്നുണ്ടോ അതിനർത്ഥം ഡാറ്റ ശേഖരണത്തിന്റെ പോയിന്റിന് സമീപമുള്ളിടത്തെല്ലാം ഇതിനർത്ഥം ഈ IoT ഉപകരണങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള യന്ത്രങ്ങൾ ഈ ഡാറ്റയെല്ലാം വിദൂര ക്ലൌഡിലേക്ക് അയച്ചാലും അത് ധാരാളം സമയം എടുക്കും ഡാറ്റ അയയ്ക്കാനും പ്രോസസ്സ് ചെയ്യാനും യഥാർത്ഥ അർത്ഥം സ്വന്തമായി അല്ലെങ്കിൽ ചിലത് തിരികെ നൽകാനും അനലിറ്റിക്സ് എഡ്ജിൽ ചെയ്യാവുന്നതാണ് അതായത് പ്രാദേശിക കവാടത്തിലോ ഹബ്ബിലോ മറ്റെന്തെങ്കിലുമോ അതിനാൽ അത് ജീവിതം വേഗത്തിലാക്കും എന്നാൽ അതേ സമയം എല്ലാം അരികിൽ പ്രോസസ്സ് ചെയ്യാൻ കഴിയില്ല അതിനാൽ ആത്യന്തികമായി അതിൽ ചിലത് ക്ലൌഡിൽ വിദൂരമായി ചെയ്യേണ്ടിവരും അതിനാൽ എഡ്ജ് ഇന്റലിജൻസ് സവിശേഷതകൾ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ് ഇവയാണ് IIoT യ്ക്ക് അനുയോജ്യമായ ക്ലൌഡ് വെണ്ടർ തിരഞ്ഞെടുക്കുന്നതിന് പരിഗണിക്കേണ്ട ചില വ്യത്യസ്ത പാരാമീറ്ററുകൾ ഇവയാണ് അതിനാൽ ക്ലൌഡ് അധിഷ്ഠിത സമീപനത്തിലെ പരിമിതികൾ നമ്മൾ IIoT യുടെ കാര്യത്തിൽ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ധാരാളം മെഷീനുകളുടെ സാഹചര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ധാരാളം IIoT ഉപകരണങ്ങൾ IoT ഉപകരണങ്ങൾ സെൻസറുകൾ ആക്യുവേറ്ററുകൾ എന്നിവ അങ്ങനെ പലതും വലിയ വേഗതയിൽ വരുന്ന വലിയ അളവിലുള്ള ഡാറ്റ വിതരണം ചെയ്യുന്നത് ഉയർന്ന വൈവിധ്യമുള്ളതാണ് വലിയ ഡാറ്റ അടിസ്ഥാനപരമായി വലിയ ഡാറ്റാ സവിശേഷതകൾ ഉണ്ട് നിങ്ങളുടെ ക്ലൌഡ് അധിഷ്ഠിത പരിഹാരങ്ങൾക്ക് അവയുടെ ആവശ്യകതകൾ നിറവേറ്റാൻ കഴിയുമോ അതോ ഇത്തരത്തിലുള്ള ആവശ്യകതകൾ ഇല്ലേ അതിനാൽ നിങ്ങൾ എല്ലാം ക്ലൌഡിലേക്ക് അയയ്ക്കുകയാണെങ്കിൽ വ്യക്തമായും വോളിയത്തിന്റെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നാൽ വേഗത പ്രത്യേകിച്ച് തത്സമയ പ്രോസസ്സിംഗ് വേഗത്തിലുള്ള പ്രോസസ്സിംഗ് തുടങ്ങിയവ അത് ബുദ്ധിമുട്ടായേക്കാം കാരണം ഉയർന്ന ലേറ്റൻസി ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് എല്ലാം ക്ലൌഡ് ബാക്കെൻഡിലേക്ക് അയയ്ക്കണം ഒരുപക്ഷേ ഭൂഖണ്ഡ സർവേ സ്ഥിതിചെയ്യുന്ന സെർവർ അത് പ്രോസസ്സ് ചെയ്യും അതിനാൽ ഇത് മൊത്തത്തിലുള്ള ലേറ്റൻസിയെ ബാധിക്കും പ്രചരണ കാലതാമസം മെഷീനിലെ ഉപകരണത്തിൽ നിന്ന് ആ ക്ലൌഡിലേക്ക് അയയ്ക്കുന്ന പാക്കറ്റ് വർദ്ധിപ്പിക്കുകയും അത് അവിടെ പ്രോസസ്സ് ചെയ്യുകയും തുടർന്ന് ഫലങ്ങൾ വീണ്ടും ലഭിക്കുകയും ചെയ്യും ഉപയോക്തൃ അവസാനം അത് സമയത്തിലേക്ക് കൂട്ടിച്ചേർക്കും അതിനാൽ എല്ലാം ക്ലൌഡ് അധിഷ്ഠിതമാണെങ്കിൽ ഉയർന്ന ലേറ്റൻസി ഉണ്ടാകും വലിയ അളവിലുള്ള വോള്യത്തിനായുള്ള ബാൻഡ്വിഡ്ത്ത് ആവശ്യകതകൾ ഉണ്ടായിരിക്കും കാരണം നിങ്ങൾ വലിയ വോളിയം ഉയർന്ന വേഗത വൈവിധ്യം എന്നിവയെക്കുറിച്ചും ഈ വലിയ ഡാറ്റ സവിശേഷതകളെക്കുറിച്ചും സംസാരിക്കുന്നു അതിനാൽ ഉയർന്ന ശേഷിയുള്ള ഉയർന്ന ബാൻഡ്വിഡ്ത്ത് ഉള്ള ചാനലും നിങ്ങൾക്ക് ആവശ്യമാണ് വലിയ നെറ്റ്വർക്കിന്റെ ആവശ്യകതയും സ്കേബിൾ ചെയ്യാവുന്ന സുരക്ഷയും ആവശ്യമാണ് ക്ലൌഡ് അധിഷ്ഠിത IIoT പരിഹാരങ്ങളിൽ ഈ പരിമിതികളിൽ ചിലതാണ് അതിനാലാണ് ആളുകൾ ചിന്തിക്കുന്ന വ്യത്യസ്തമായ മറ്റ് പരിഹാരങ്ങൾ അതിനാൽ പൂർണ്ണമായും കേന്ദ്രീകൃതമായ ക്ലൌഡ് അധിഷ്ഠിത പരിഹാരങ്ങളാണ് നമ്മൾ സംസാരിച്ചത് നമ്മൾ ഇതിനകം കണ്ട നിരവധി പരിമിതികൾ അവ അനുഭവിക്കുന്നു ഇപ്പോൾ ആളുകൾ സംസാരിക്കുന്നത് വികേന്ദ്രീകൃത സമീപനത്തെക്കുറിച്ചാണ് അത് ക്ലൌഡിലെ ചില ലോഡ് കുറയ്ക്കുകയും ചില കാര്യങ്ങൾ അരികിൽ പ്രോസസ്സ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തെ വേഗത്തിലാക്കുകയും ചെയ്യും അതിനാൽ ഇത് അരികിലുള്ള ഭാഗിക ക്ലൌഡ് പോലെയാണ് ഇതിനർത്ഥം ഈ ഡാറ്റ സൃഷ്ടിക്കപ്പെടുന്ന ഉപകരണങ്ങളോട് കൂടുതൽ അടുത്ത് തത്സമയ പ്രവർത്തന സാധ്യതകൾ കൂടുതൽ മൊബിലിറ്റി പിന്തുണ ഇവയാണ് ഈ ക്ലൌഡ് അധിഷ്ഠിത കേന്ദ്രീകൃത സമീപനങ്ങളിൽ ചിലത് ഈ വ്യത്യസ്ത ഘടകങ്ങളിൽ നിന്നും വ്യത്യസ്തമായ മറ്റ് സവിശേഷതകളിൽ നിന്നും അവർ എങ്ങനെയാണ് കഷ്ടപ്പെടുന്നത് സവിശേഷതകൾ മൊബിലിറ്റി പിന്തുണ പ്രവർത്തനങ്ങൾ തത്സമയ പ്രവർത്തന സാധ്യതകൾ ആവശ്യമുള്ളവ തുടങ്ങിയവ അതിനാൽ നമ്മൾ ഇൻഡസ്ട്രി 4 0 നെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ മുമ്പ് സംസാരിച്ച നിരവധി പ്രഭാഷണങ്ങൾ നോക്കുക അങ്ങനെ ഈ വ്യത്യസ്ത വ്യവസായ 4 0 ലക്ഷ്യങ്ങളിൽ ചിലത് ഇവയാണ് അതിനാൽ IIoT വ്യൂ പോയിന്റിൽ നിന്ന് ഈ ആവശ്യകതകൾ ഉയർന്ന ഉൽപാദന ഒപ്റ്റിമൈസ് ചെയ്ത തീരുമാനങ്ങൾ നേടാൻ ലക്ഷ്യമിടുന്നു ഉയർന്ന കാര്യക്ഷമതയും ലഭ്യതയും ഉപയോഗിച്ച് സാധ്യമാകും IIoT യുടെ സഹായത്തോടെ മെഷീനുകൾ സംവിധാനങ്ങൾ ഉൽപന്നങ്ങൾ പരിസ്ഥിതി എന്നിവയുടെ ഒരു ബന്ധിത ലോകം സ്ഥാപിച്ച് വിശകലനത്തിന്റെയും പ്രവചനത്തിന്റെയും ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ നേടാനും സാധിക്കും കണക്റ്റുചെയ്ത IoT കണക്റ്റുചെയ്ത യന്ത്രങ്ങൾ ഈ യന്ത്രങ്ങളിൽ കണക്റ്റുചെയ്ത IoT ഉപകരണങ്ങൾ അങ്ങനെ ഓരോ മേഖലയിൽ നിന്നുള്ള ഡാറ്റ ശേഖരണവും അതിന്റെ നേട്ടങ്ങളുടെ സമ്പത്ത് പ്രയോജനപ്പെടുത്തുന്നതിനുള്ള വിശകലനങ്ങളും ഇവ IIoT കാഴ്ചപ്പാടിൽ നിന്നുള്ള ചില ആവശ്യകതകളാണ് അതിനാൽ കേന്ദ്രീകൃത ക്ലൌഡിനൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള വികേന്ദ്രീകൃത അല്ലെങ്കിൽ വിതരണം ചെയ്ത സമീപനമാണ് പരിഹാരം ഇത് കുറച്ച് സമയ സെൻസിറ്റീവ് ഡാറ്റ കൈകാര്യം ചെയ്യാൻ സഹായിക്കും അവിടെ ഉടനടി നടപടിയെടുക്കേണ്ടിവരും ചില പ്രോസസ്സിംഗുകളും ആവശ്യമാണ് എല്ലാം ക്ലൌഡിൽ അയയ്ക്കുന്നതിനുപകരം വേഗത്തിൽ ചെയ്യേണ്ടിവരും അത് മൊത്തത്തിൽ ലേറ്റൻസി വർദ്ധിപ്പിക്കും അതിനാൽ മൂടൽമഞ്ഞ് വരുന്ന നിങ്ങളുടെ പരിഹാരത്തിൽ എന്തെങ്കിലും ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു തലത്തിലെങ്കിലും പ്രോസസ്സിംഗിലെ ആ ഉടനടി അതിനാൽ ഡാറ്റയുടെ ഉത്ഭവസ്ഥാനത്തോട് അടുത്ത് ഈ പ്രോസസ്സിംഗ് നടത്താൻ സഹായിക്കുന്ന ഒരു ഉയർന്നുവരുന്ന സാങ്കേതികവിദ്യയാണ് മൂടൽമഞ്ഞ് ബാക്കി പ്രോസസ്സിംഗ് ക്ലൌഡിൽ ചെയ്യാവുന്നതാണ് അതിനാൽ ഫോഗ് കമ്പ്യൂട്ടിംഗ് അടിസ്ഥാനപരമായി എഡ്ജ് ലെയറിനും ക്ലൌഡ് ലെയറിനും ഇടയിൽ ഒരു അധിക ലെയർ വാഗ്ദാനം ചെയ്യുന്നു എന്നിരുന്നാലും മൂടൽമഞ്ഞിന് എല്ലാം ചെയ്യാൻ കഴിയില്ലെന്ന് ഓർക്കുക നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇതിന് പരിഹരിക്കാനാകില്ല എല്ലാ പ്രോസസ്സിംഗും മൂടൽമഞ്ഞ് പാളിക്ക് ചെയ്യാൻ കഴിയും അല്ലാത്തപക്ഷം ക്ലൌഡിൽ ഇത് ചെയ്യപ്പെടും അതിനാൽ ചില അസംസ്കൃത ഡാറ്റയുടെ ചില അർത്ഥവത്തായ പ്രോസസ്സിംഗ് അത് യഥാർത്ഥത്തിൽ ക്ലൌഡിലേക്ക് അയയ്ക്കുന്നതിന് മുമ്പ് കൂടാതെ ചില പ്രോസസ്സിംഗ് വളരെ വേഗത്തിൽ ചെയ്യേണ്ടതുണ്ട് അത് മൂടൽമഞ്ഞിൽ ചെയ്യും അതിനാൽ ബുദ്ധിപരമായ ഉപകരണങ്ങൾ അരികിൽ വിന്യസിച്ചിരിക്കുന്നു ബുദ്ധിമാനായ കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ മൂടൽമഞ്ഞ് നോഡുകൾ എന്നറിയപ്പെടുന്ന ഉപകരണങ്ങൾ വിന്യസിക്കപ്പെടും അത് ഡാറ്റ ഫിൽട്ടറിംഗ് ഡാറ്റ സമാഹരണം വിവർത്തനം തുടങ്ങിയ വ്യത്യസ്ത സേവനങ്ങൾ വാഗ്ദാനം ചെയ്യും ഡാറ്റയും മറ്റും അതിനാൽ ഐഐഒടിക്കായുള്ള ക്ലൌഡ് കമ്പ്യൂട്ടിംഗിനെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണത്തിന്റെ അവസാനത്തോടെ സമഗ്രമായ മുൻ പ്രഭാഷണവും ഈ പ്രഭാഷണവും ഉൾപ്പെടുത്തി ക്ലൌഡിന്റെ ആവശ്യകതകൾ എന്തുകൊണ്ടാണ് ക്ലൌഡ് അടിസ്ഥാനമാക്കിയുള്ള പരിഹാരങ്ങൾ ആവശ്യമെന്ന് ഞങ്ങൾ നോക്കിക്കഴിഞ്ഞു എന്തുകൊണ്ടാണ് ക്ലൌഡ് അധിഷ്ഠിത വിശകലന പരിഹാരങ്ങൾ ആവശ്യമായി വരുന്നത് അവ എങ്ങനെ ഉപയോഗപ്രദമാണ് ഈ ക്ലൌഡ് അധിഷ്ഠിത പരിഹാരം വ്യവസായങ്ങളിൽ നിലനിൽക്കുന്ന ചില യഥാർത്ഥ ജീവിത വ്യവസായം 4 0 IIoT ആവശ്യകതകൾ നിറവേറ്റാൻ എങ്ങനെ സഹായിക്കും ചില നിർദ്ദിഷ്ട പരിഹാരങ്ങൾ ചില വ്യവസായ നിർദ്ദിഷ്ട പരിഹാരങ്ങൾ ചില സ്വതന്ത്ര സോഫ്റ്റ്വെയർ കമ്പനി അടിസ്ഥാനമാക്കിയുള്ള പരിഹാരങ്ങൾ എന്നിവയും അങ്ങനെ ഞങ്ങളുടെ ചില ആവശ്യകതകൾ പരിഹരിക്കുന്നതിന് അവ എങ്ങനെ സഹായിക്കും അതിനാൽ ഇതോടൊപ്പം ഞങ്ങൾ അവസാനിക്കുകയും ഈ വ്യത്യസ്ത പരാമർശങ്ങളിൽ ചിലത് ഇവിടെയുണ്ട് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യത്യസ്ത പരാമർശങ്ങളിലൂടെ കടന്നുപോകാൻ കഴിയുമെങ്കിൽ ഞാൻ എഴുതിയ ഈ പ്രത്യേക പേപ്പറിലൂടെ നിങ്ങൾ പോകാൻ ഞാൻ നിർദ്ദേശിക്കുന്നു അതിനാൽ 2018 ലെ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിലെ IEEE ഇടപാടുകളിൽ പ്രസിദ്ധീകരിച്ച ഇന്റർനെറ്റ് ഓഫ് തിംഗ്സിന്റെ പശ്ചാത്തലത്തിൽ ഫോഗ് കമ്പ്യൂട്ടിംഗിന്റെ അനുയോജ്യതയുടെ വിലയിരുത്തലും മറ്റ് പേപ്പറുകളും ഇതും ഒരുമിച്ച് 2 സാങ്കേതികവിദ്യകളെക്കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും ഒന്ന് മേഘം ഐഐഒടിക്കായുള്ള ക്ലൌഡും അടുത്ത പ്രഭാഷണത്തിൽ കൂടുതൽ ആഴത്തെക്കുറിച്ച് ഞാൻ വീണ്ടും ചർച്ച ചെയ്യാൻ പോകുന്ന പുതിയ സാങ്കേതികവിദ്യ മൂടൽമഞ്ഞും അതിനാൽ ഈ റഫറൻസുകളിലെല്ലാം മൂടൽമഞ്ഞും മേഘവും ഒരു ആഴത്തിലുള്ള ഉൾക്കാഴ്ച ലഭിക്കാൻ നിങ്ങളെ സഹായിക്കും കൂടാതെ IIoT ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി അനുയോജ്യമായ മേഘം മൂടൽമഞ്ഞ് അടിസ്ഥാനമാക്കിയുള്ള പരിഹാരങ്ങൾ ആവശ്യമാണ് ഇതോടെ ഞങ്ങൾ അവസാനിക്കുന്നു ഈ പ്രത്യേക പ്രഭാഷണം ഇതൊക്കെയാണ് അവിടെയുള്ള പരാമർശങ്ങൾ